അതിനാൽ ഇപ്പോൾ ഈ മൊഡ്യൂൾ 2D FEM ലേക്ക് നോക്കാൻ പോകുന്നു അത് അടിസ്ഥാനപരമായി നമ്മൾ 1D യിൽ നോക്കിയതിന്റെ ഒരു വിപുലീകരണമാണ് അതിനാൽ വെക്റ്റർ പരിമിത മൂലകങ്ങളെ നേരിട്ട് നോക്കാൻ പോകുന്നത് ഇവിടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തരത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നത് 1D അടിസ്ഥാനമാക്കിയുള്ള നോഡ് ആണ് കൂടാതെ 2D അടിസ്ഥാനമാക്കിയുള്ള നോഡിന്റെ ഷേപ്പ് ഫംഗ്ഷനുകൾ ഞാൻ കാണിച്ചുതന്നിട്ടുണ്ട് ശരി അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് വെക്റ്റർ അടിസ്ഥാനമാക്കിയുള്ള ഒരു പരിമിത ഘടകങ്ങളിലേക്ക് നേരിട്ട് പോകും കാരണം നിങ്ങൾക്ക് 1D മുതൽ 2D സ്കെയിലറിന്റെ യുക്തി പിന്തുടരുന്നത് എളുപ്പമാണ് അതിനാൽ നമുക്ക് കൂടുതൽ രസകരമായ എന്തെങ്കിലും ചെയ്യാം 2D വെക്റ്റർ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വാക്ക് എഡ്ജ് അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനെ നോഡ് അധിഷ്ഠിതവും എഡ്ജ് അധിഷ്ഠിതവും എന്ന് പരാമർശിക്കുന്നു അതിനാൽ നമുക്ക് ശരിയായ ആകൃതിയിലുള്ള ഫംഗ്ഷനുകൾ നോക്കാം അപ്പോൾ വലത് ഭാഗത്ത് 1 2 3 നോഡുകളും ചില പോയിന്റ് P ഉം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറി പുതുക്കുന്നതിനായി ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്കെയിലർ ആകൃതിയിലുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു അതിനാൽ ഞാൻ നിർവചിച്ചു ഉദാഹരണത്തിന് ഇത് ഒരു ലീനിയർ ഫംഗ്ഷൻ ശരിയായി മാറി അതിനാൽ ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതാണ് ആകൃതിയുടെ പ്രവർത്തനമായി ഞങ്ങൾ നിർവചിച്ചത് അതിനാൽ ഇത് നോഡ് അധിഷ്ഠിതമായിരുന്നു ഒടുവിൽ ഇത് ഉപയോഗിച്ച് ഞങ്ങൾ എന്താണ് ശരി ചെയ്തത് വലതുവശത്ത് എവിടെയും വയൽ എന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ 2D നോഡ് അടിസ്ഥാനമാക്കിയുള്ള കാര്യം വളരെ ലളിതമാണ് അതിനാൽ നമുക്ക് ഇത് ഇവിടെ എഴുതാം ഇത് നോഡ് അടിസ്ഥാനമാക്കിയുള്ള 2D ശരിയാണ് അതിനാൽ നിങ്ങൾ ഉള്ളിലേക്ക് എടുത്താൽ ഏത് മൂല്യവും എനിക്ക് ലീനിയർ കോമ്പിനേഷനായി എഴുതാം ഇവയാണ് ലീനിയർ ഫംഗ്ഷനുകൾ അതിനാൽ ഇതിൽ നിന്ന് വെക്റ്റർ ഫംഗ്ഷനുകൾ എങ്ങനെ നിർമ്മിക്കാൻ ഞാൻ ശ്രമിക്കും എന്നതാണ് ഇപ്പോൾ ചോദ്യം അതിനാൽ ഉത്തരം വളരെ മനോഹരമായ ജ്യാമിതീയ ഉത്തരമാകുന്ന സാഹചര്യം ഇതാ അതിനാൽ ഞാൻ അത് എഴുതാം അതിനുശേഷം അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം അതിനാൽ ഞാൻ ഒരു വെക്റ്റർ ഫംഗ്ഷൻ ടി നിർവചിക്കാൻ പോകുന്നു അതിനാൽ ഇത് ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആണ് അതിനർത്ഥം ബഹിരാകാശത്തിലെ ഏത് ഘട്ടത്തിലും അതിന് ഈ ഫംഗ്ഷനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യാപ്തിയും ദിശയും ഉണ്ടായിരിക്കും ഏത് ഘട്ടത്തിലും ഇതിന് സ്കെലാർ ഫംഗ്ഷൻ വലത് കാന്തിമാനമുണ്ട് അതിനാൽ ഇത് അതിനാൽ k 1 2 3 ഫൈനായിരിക്കാം അതിനാൽ വെക്ടറുകൾ വലത്തു നിന്ന് എവിടെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക ഞാൻ ഈ അവകാശത്തിന്റെ ഗ്രേഡിയന്റ് എടുക്കുന്നു അതിനാൽ ഞങ്ങൾ എന്തെങ്കിലും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് ഏത് ഡിഗ്രി ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥി സർ ലീനിയർ മാത്രം ഞാൻ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ മാത്രം അത് രേഖീയമായിരിക്കും വിദ്യാർത്ഥി അത് അവിടെ ആദ്യം അവർ 0 ലേക്ക് പോകും തുടർന്ന് എനിക്ക് വലത് നൽകും അതിനാൽ ഞാൻ വീണ്ടും ചില നല്ല ജ്യാമിതീയ സവിശേഷതകൾ ഉണ്ടാകും അത് കാരണം എല്ലാ നിബന്ധനകളും റദ്ദാക്കുകയും നിങ്ങൾ ഈ പദപ്രയോഗം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ അതിനാൽ ഇത് വെക്റ്റർ ആകൃതി ഫംഗ്ഷനുകളുടെ ഒരു നിർവചനമാണ് അതിനാൽ നിങ്ങൾക്ക് ഉണ്ടാകും L എന്നത് മുകളിൽ പറഞ്ഞതിന് സമാനമാണ് നോഡ് കേസിൽ ഞാൻ നിർവചിച്ച അതേ L i തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് അതെ അടുത്ത കാര്യം ശരിയാക്കാൻ ഞാൻ അത് ഉപയോഗിക്കുന്നു അതിനാൽ x ഘടകത്തിൽ x ഇല്ല y ഘടകത്തിൽ y ഇല്ല അത് സംഭവിക്കുന്നു കാരണം ഈ സംഗതി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രീതിയിൽ x ആശ്രിത നിബന്ധനകൾ റദ്ദാക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ പദപ്രയോഗം ഇങ്ങനെ എഴുതുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അവബോധം ലഭിക്കുന്നില്ലേ അതിനാൽ നിങ്ങൾ എന്തിനാണ് നോഡ് അധിഷ്ഠിത അല്ലെങ്കിൽ എഡ്ജ് അടിസ്ഥാനമാക്കിയുള്ള വലത് ഉപയോഗിക്കുന്നത് അതിനാൽ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അതിലേക്ക് വരാം പക്ഷേ അടിസ്ഥാന ആശയം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ വെക്റ്റർ ഫീൽഡുകളെക്കുറിച്ചാണ് അതിനാൽ സ്കെയിലർ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ പരിഹാരം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കൃത്യത നഷ്ടപ്പെടും അതിനാൽ വെക്റ്റർ അടിസ്ഥാനമാക്കിയുള്ള ഫോർമുലേഷനുകൾ കൂടുതൽ കൃത്യമാണ് നോഡ് അധിഷ്ഠിത ഫോർമുലേഷന്റെ കാര്യത്തിൽ ഇന്റേണൽ റെസൊണൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട് അവിടെ നിങ്ങൾക്ക് ചില വ്യാജ പരിഹാരങ്ങൾ ലഭിക്കും ഭൌതികമായി നിലവിലില്ലാത്ത സൊല്യൂഷനുകൾ എന്നാൽ നിങ്ങൾ നോഡ് അടിസ്ഥാനമാക്കിയുള്ള സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അവ ദൃശ്യമാകും നിങ്ങൾ എഡ്ജ് അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങൾ ശരിയായി ഉപയോഗിക്കുമ്പോൾ അവ ഇല്ലാതാകും അതിനാൽ ഈ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ശരിയാണെന്ന് തോന്നുന്നത് ഇതാണ് അതിനാൽ ഉദാഹരണത്തിന് ഇത് നിങ്ങളുടേതാണ് ഇത് നിങ്ങളുടേതാണ് ഇതാണ് നിങ്ങളുടെ ശരി അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ x y എന്ന ബഹിരാകാശത്ത് ഏത് ഘട്ടത്തിലും ഒരു വെക്റ്റർ ഉണ്ടാകും അതിനാൽ ഒരു വ്യാപ്തിയും ദിശയും ശരിയാണ് അതിനാൽ ഈ 3 വെക്റ്റർ ഫീൽഡുകളുടെ ഒരു രേഖീയ സംയോജനമായാണ് ഞാൻ ഏത് ഘട്ടത്തിലും ഫീൽഡ് എഴുതുന്നത് അതിനാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചില പ്രോപ്പർട്ടികൾ 2 പ്രധാന പ്രോപ്പർട്ടികൾ നോക്കാം അതിനാൽ ഇവിടെയുള്ള ആദ്യത്തെ പ്രോപ്പർട്ടി ഞാൻ ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു എഡ്ജ് നമുക്ക് നോക്കാം അതിനാൽ ഇത് 1 ആയിരുന്നുവെന്നും ഞങ്ങളുടെ കൺവെൻഷനിൽ ഇത് 2 ഉം 3 ഉം ആയിരുന്നു എന്ന് ഓർക്കുക അതിനാൽ ഞാൻ ഉദാഹരണമായി നോക്കുമ്പോൾ ഈ ഉദാഹരണത്തിൽ തന്നെ അരികിൽ 2 3 ന്റെ ഘടകഭാഗം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ അർത്ഥമാക്കാമോ അതിനാൽ ഒരാൾക്ക് കിണറിന്റെ അരികിൽ 2 3 ഘടകം ദിശ മാറ്റുന്നു അവ വലതുവശത്ത് നിന്ന് ആരംഭിച്ച് ഇടത് വശത്തേക്ക് ചാടുന്നു അതിനാൽ അതെ കണക്ക് തീരെ കുറവല്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ചിത്രത്തിൽ നിന്ന് നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്നാൽ നിങ്ങൾ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ അരികിലുള്ള ഒരു വെക്റ്റർ ഫീൽഡിന്റെ ഘടകം സ്ഥിരമാണെന്ന് മാറുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് വിദ്യാർത്ഥി മുഴുവൻ വെക്റ്റർ ഫീൽഡ് മുഴുവൻ വെക്റ്റർ ഫീൽഡും അതിനാൽ ഇത് ഇത് ഇത് ഈ പോയിന്റുകൾ ഇവിടെയുള്ള ഏത് പോയിന്റും ശരിയും ഈ ഡോട്ട് ഇട്ട കാര്യങ്ങളിൽ എനിക്ക് 1 ലഭിക്കുന്ന ഘടകം എടുക്കുന്ന ഏത് പോയിന്റും ഞാൻ വിലയിരുത്തുകയാണ് വിദ്യാർത്ഥി അകത്ത് അരികിൽ ഇല്ല അകത്തല്ല അരികിൽ മാത്രം അതാണ് ആദ്യത്തെ കാര്യം മറ്റ് അരികുകളിൽ ടി 1 ന്റെ കാര്യമോ അതിനാൽ ഞങ്ങൾ എഡ്ജ് 1 2 ഉം 3 1 ഉം ആയിരിക്കും അത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു വിദ്യാർത്ഥി സാധാരണ സാധാരണ അവകാശം ഇത് തികച്ചും സാധാരണമാണ് സ്പർശിക്കുന്ന ഘടകമൊന്നുമില്ല അതിനാൽ ഇതുപോലുള്ള ഒന്നിന്റെ പ്രയോജനം എന്തായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു അതെ അതിനാൽ മറ്റ് 2 അരികുകളിൽ ഫീൽഡിന്റെ ടാൻജെൻഷ്യൽ ഘടകത്തെ ഒരു തരത്തിലും നശിപ്പിക്കില്ല അതിനാൽ എഡ്ജ് 1 ബൈ എഡ്ജ് 1 ന്റെ ടാൻജൻഷ്യൽ ഘടകം ശ്രദ്ധിക്കുന്നു ഞാൻ അർത്ഥമാക്കുന്നത് എഡ്ജ് 2 3 റൈറ്റ് ആണ് ഉദാഹരണത്തിന് ഇവിടെ സംസാരിക്കുന്നത് എഡ്ജ് 2 ലെ സംഭാവനയെക്കുറിച്ചാണ് മറ്റ് അരികുകളിൽ 0 വലത് 1 ആണ് അതിനാൽ ഇവിടെ ഉദാഹരണമായി ഞാൻ ഇത് 1 3 എന്നത് 0 ന് തുല്യമാണ് എന്ന് എഴുതണം മുകളിലുള്ള ഈ കാര്യം പ്ലസ് അല്ലെങ്കിൽ മൈനസ് 1 ആയിരിക്കാം വിദ്യാർത്ഥി അതെ കൺവെൻഷൻ ശരി നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉള്ളിലെ ഏത് സമയത്തും എനിക്ക് ഫീൽഡ് എഴുതാൻ കഴിയും എനിക്ക് ഇപ്പോൾ അത് എങ്ങനെ എഴുതാനാകും അതിനാൽ ലീനിയർ കോമ്പിനേഷൻ അങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നത് അതിനാൽ എനിക്കുണ്ട് അതിനാൽ ഇത് ചെയ്യുന്നതിന്റെ പ്രയോജനം എന്താണ് എന്റെ അജ്ഞാതർ ഫീൽഡിന്റെ സ്പർശന ഘടകങ്ങളാണ് ഞാൻ ഏതെങ്കിലും 1 അരികിലൂടെ പോയാൽ എനിക്ക് ലഭിക്കുന്നത് 1 അല്ലെങ്കിൽ മൈനസ് 1 ലഭിക്കും അതിനാൽ ഞാൻ രൂപപ്പെടുത്തിയ പ്രശ്നത്തിൽ ഇപ്പോൾ എന്റെ അജ്ഞാതമായവയാണ് ഞാൻ അത് കൊണ്ട് ഗുണിക്കുന്നത് വെക്റ്റർ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫോർമുലേഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അതിനർത്ഥം എന്റെ അജ്ഞാതർ വെക്റ്ററുകളാകാൻ ആഗ്രഹിച്ചു അതിനാൽ എന്റെ അജ്ഞാതർ വെക്റ്ററുകളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനാൽ ഞാൻ ചെയ്തത് അജ്ഞാത വെക്ടറുകൾ ആണ് സ്കെലാർ അജ്ഞാതം എന്ന് ഞാൻ എഴുതിയത് അറിയപ്പെടുന്ന വെക്റ്റർ ഫീൽഡ് കൊണ്ട് ഗുണിച്ചാൽ അജ്ഞാതമായ എല്ലാം ശരിയാണെന്ന് പരിഹരിക്കാൻ എളുപ്പമാണ് അതിനാൽ ഇപ്പോൾ അജ്ഞാതർ സ്കെയിലറുകളാണ് എന്താണ് സ്കെയിലറുകൾ ശരി ഇത് ചെയ്തതിന്റെ മറ്റെന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് കാണാനാകുമോ ഒന്നിലധികം ഘടകങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് സൂചന അതിനാൽ ഇവയെല്ലാം പുറത്ത് 0 ആണ് അതിനാൽ പൊതുവായ അരികുകളെക്കുറിച്ചുള്ള ചിലത് എന്താണ് ഇവയുടെ നല്ല സ്വത്ത് ശരിയാണ് മാക്സ്വെല്ലിന്റെ സമവാക്യം പറയുന്നത് ഏതെങ്കിലും അതിരുകളുള്ള സ്പർശക മണ്ഡലങ്ങൾ ഫീൽഡുകൾ ഒന്നുതന്നെയാണെന്ന് ശുദ്ധമായ ഉപരിതല കറന്റ് ഇല്ലെങ്കിൽ നമുക്ക് അത് പിന്നീട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അവഗണിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വതന്ത്രമായ ഇടം ഉണ്ടെന്നോ അല്ലെങ്കിൽ ചില ഏകതാനമായ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന മെറ്റീരിയലുകളോ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അത് ഏത് അതിർത്തി ഇന്റർഫേസിലും പ്രശ്നമല്ല ടാൻജെൻഷ്യൽ ഫീൽഡുകൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ ആദ്യ മൂലകം 1 നുള്ളിലെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ അരികിലുള്ള ഒരു ഘടകം 2 എന്ന് പറയാം നോഡ് അടിസ്ഥാനമാക്കിയുള്ള 1D FEM ൽ ഉള്ളത് പോലെയാണ് ഇത് ശരിയാണ് മാക്സ്വെല്ലിന്റെ സമവാക്യം പറയുന്നത് ഏതെങ്കിലും അതിരുകളുള്ള സ്പർശക മണ്ഡലങ്ങൾ ഫീൽഡുകൾ ഒന്നുതന്നെയാണെന്ന് ശുദ്ധമായ ഉപരിതല കറന്റ് ഇല്ലെങ്കിൽ നമുക്ക് അത് പിന്നീട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അവഗണിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വതന്ത്രമായ ഇടം ഉണ്ടെന്നോ അല്ലെങ്കിൽ ചില ഏകതാനമായ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന മെറ്റീരിയലുകളോ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അത് ഏത് അതിർത്തി ഇന്റർഫേസിലും പ്രശ്നമല്ല ടാൻജെൻഷ്യൽ ഫീൽഡുകൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ ആദ്യ മൂലകം 1 നുള്ളിലെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ അരികിലുള്ള ഒരു ഘടകം 2 എന്ന് പറയാം നോഡ് അടിസ്ഥാനമാക്കിയുള്ള 1D FEM ൽ ഉള്ളത് പോലെയാണ് ഇത് നോഡ് അടിസ്ഥാനമാക്കിയുള്ള 1D FEM ൽ ഉള്ളത് പോലെയാണ് ഇത് 2 വേരിയബിളുകൾ 1 വേരിയബിൾ വലത് സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ രണ്ട് മൂലകങ്ങൾക്കും നോഡിലെ മൂല്യം പൊതുവായതാണ് അതിനാൽ ബൌണ്ടറി ടാൻജെൻഷ്യൽ ബൌണ്ടറി വ്യവസ്ഥകൾ സ്വയമേവ ശരിയാണ് അതിനാൽ ഈ പ്രോപ്പർട്ടികൾ ഉണ്ടാകുന്നതിനായി ഇവ നിർമ്മിക്കുന്നതിന് ആളുകൾ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഈ പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കാൻ ഈ അടിസ്ഥാന ഫംഗ്ഷനുകൾ രൂപകൽപ്പന ചെയ്തത് സന്തോഷകരമായ യാദൃശ്ചികത മാത്രമല്ല കാരണം നിങ്ങൾക്ക് അതിർത്തി വ്യവസ്ഥകൾ സൌജന്യമായി തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിഹാരം കൂടുതൽ കൃത്യതയുള്ളതായിരിക്കും അതിനാൽ ഈ അടിസ്ഥാന പ്രവർത്തനങ്ങൾ അവർ സാഹിത്യത്തിൽ വിവിധ പേരുകളിൽ പോകുന്നു അതിനാൽ ഒരു കമ്മ്യൂണിറ്റി വിറ്റ്നി മൂലകങ്ങൾ എന്നും മറ്റൊരു കമ്മ്യൂണിറ്റി അവയെ നെഡെലെക് ഘടകങ്ങൾ എന്നും വിളിക്കേണ്ട ചില പേരുകൾ ഞാൻ എഴുതുന്നു അതിനാൽ എനിക്ക് 2 തൊട്ടടുത്ത് 2 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കും എന്നതാണ് ചോദ്യം വിദ്യാർത്ഥി ത്രികോണം ത്രികോണ മൂലകങ്ങൾ അപ്പോൾ ഈ അമ്പുകളുടെ ദിശയെ സംബന്ധിച്ചെന്ത് അതെ അതിനാൽ ഞങ്ങൾ നടപ്പാക്കലിലേക്ക് ഇറങ്ങുമ്പോൾ വെക്റ്റർ ഫീൽഡ് ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ഒരു പ്രത്യേക അരികിൽ സ്ഥിരതയുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ പ്രാദേശികവും ആഗോളവുമായ കൺവെൻഷനുകൾക്ക് കീഴിൽ ഇതെല്ലാം പരിപാലിക്കപ്പെടുന്നു അതിനാൽ FEM ൽ ഞാൻ ലോക്കലിൽ നിന്ന് ഗ്ലോബലിലേക്കും ഗ്ലോബലിൽ നിന്ന് ലോക്കലിലേക്കും പോകുമ്പോൾ എല്ലാം സ്ഥിരതയുള്ളതാണെന്ന് ഉറപ്പാക്കാൻ ധാരാളം സമയം ചെലവഴിക്കുന്നു വാസ്തവത്തിൽ ഇത് ധാരാളം കോഡിംഗ് പിശകുകളുടെ ഉറവിടമാണ് അതെ അതിനാൽ ഒരു നിശ്ചിത അരികിൽ ഫീൽഡിന്റെ സ്ഥിരമായ ഒരു ദിശ ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് 1 ഘടകം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയാനാവില്ല കാരണം അജ്ഞാതമായത് രണ്ടിനും പൊതുവായതും ഒരു അദ്വിതീയവും മാത്രമേയുള്ളൂ ഫീൽഡിലേക്കുള്ള ദിശ ശരി അതിനാൽ ആകൃതിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും സൌകര്യപ്രദമാണ് അതിനാൽ നിങ്ങൾ ശരിയായി നിർമ്മിച്ച വെക്റ്റർ ഫീൽഡിലേക്ക് നിങ്ങൾ നോക്കുന്നത് ഇതാദ്യമായാണ് അതിനാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിഹാരത്തെ പ്രതിനിധീകരിക്കുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ മികച്ച കൃത്യത ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രയോജനം ഉദാഹരണത്തിന് ഇന്റഗ്രൽ ഫോർമുലേഷനിൽ ഞങ്ങൾ ചെയ്ത ചിതറിക്കൽ പ്രശ്നം ടിഎം ധ്രുവീകരണം ഉണ്ടെന്ന് അറിയില്ല അതേ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കണമെങ്കിൽ എന്റെ അജ്ഞാത വിമാനത്തിൽ H ആയിരിക്കാം ഈ വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെടും അതിനാൽ എനിക്ക് ജോലി ചെയ്യേണ്ടതില്ല എനിക്ക് എച്ചിനൊപ്പം പ്രവർത്തിക്കാം ഞാൻ 1 മുതൽ 2 വരെ യാത്ര ചെയ്യുമ്പോൾ വിദ്യാർത്ഥി അതെ വിദ്യാർത്ഥി നമുക്ക് ആ വശം 0 നോക്കാം യു എന്നതിന്റെയും ഇവയുടെയും സ്പർശന ഘടകങ്ങൾ വിദ്യാർത്ഥി എപ്പോൾ പോലെ ഇല്ല ഞാൻ നോഡ് 1 മുതൽ 2 വരെ പ്രവർത്തിക്കുന്നു എന്ന നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് പോകുമ്പോൾ ശരി അതെ ഏതെങ്കിലും എഡ്ജ് എടുത്ത് അതിനോടൊപ്പം പ്രവർത്തിക്കുക വിദ്യാർത്ഥി അതെ അതെ എല്ലാവർക്കും സാധാരണ ഘടകങ്ങൾ ഉണ്ട് അതിനാൽ സ്പർശന ഘടകം ആ ഒരു ഘടകം മാത്രമാണ് നൽകുന്നത് അതിനാൽ ഇത് ഈ ദ്രാവക മെക്കാനിക്സിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടെ ചില അരികുകളിൽ സ്ഥിരമായ ഘടകം സ്പർശന ഭാഗമല്ല മറിച്ച് സാധാരണമാണ് അതിനാൽ ഒരു അതിരുകളിലുടനീളം ഒഴുക്ക് സംരക്ഷിക്കാൻ ഇത് അവരെ അനുവദിക്കുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഒഴുക്ക് ശരിയല്ല അതിനാൽ ഇപ്പോൾ നമുക്ക് അതെ ചോദ്യം ചെയ്യാം വിദ്യാർത്ഥി ആണോ മുമ്പത്തെ സ്ലൈഡ് വിദ്യാർത്ഥി അതെ കാരണം എന്തുകൊണ്ടാണ് x ഘടകത്തിൽ x ഇല്ലാത്തത് y ഘടകത്തിൽ y ഇല്ല നിങ്ങൾ ബീജഗണിതം ശരി ചെയ്തുകഴിഞ്ഞാൽ അത് എങ്ങനെ മാറും ഞാൻ അന്തിമ രൂപം എഴുതുകയാണ് എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഇവ ചെറുതാണ് b ചെറിയ c അവയ്ക്കെല്ലാം ത്രികോണത്തിന്റെ കോർഡിനേറ്റുകൾ അതിനുള്ളിൽ വലതുവശത്തുണ്ട് അതിനാൽ ഈ നിർവചനം ശരിയാക്കുന്നതിൽ അവർ ഏർപ്പെടുന്നു അതിനാൽ അവയെല്ലാം റദ്ദാക്കി നിങ്ങൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും വളരെ ലളിതമായ ഈ രൂപമാണ് നിങ്ങൾക്ക് അവശേഷിക്കുന്നത് ഇത് അൽപ്പം പ്രതിലോമകരവും ആശ്ചര്യകരവുമാണ് പക്ഷേ അതാണ് ശരി പക്ഷേ ഇത് എഴുതുന്നത് ബീജഗണിതത്തിലെ ലളിതമായ ഒരു വ്യായാമമാണ്